അതിനാൽ ഈ രേഖീയമല്ലായ്മ പഠിക്കാൻ നമ്മൾ ഒരു ലളിതമായ സംഖ്യാ പരീക്ഷണം നടത്താൻ പോകുന്നു വളരെ ലളിതമായ സംഖ്യാ പരീക്ഷണം എന്താണ് ആ പരീക്ഷണം ഇതാണ് എന്റെ ഡൊമെയ്ൻ D എന്റെ ഡൊമെയ്ൻ D യിൽ രണ്ട് ഒബ്ജക്റ്റുകൾ മാത്രമേ ഉള്ളൂ രണ്ട് ഒബ്ജക്റ്റുകൾ ഉം ഉം കൂടാതെ ഈ ഒബ്ജക്റ്റുകളുടെ അതിരുകൾ എനിക്ക് അറിയാമെന്നത് എനിക്കിവിടെ കൂടുതൽ എളുപ്പമാക്കാൻ ഞാൻ അനുമാനിക്കുന്നു ഞാൻ ഇത് വളരെ ലളിതമാക്കാൻ പോകുന്നു രണ്ട് വേരിയബിളുകളിലേക്ക് ഇതിനെ പരിമിതപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എന്തിനാണ് അത് ചെയ്യുന്നത് എനിക്ക് 2D ദൃശ്യവത്കരിക്കാൻ കഴിയുന്നതിനാൽ എനിക്ക് 10D ശരിയായി ദൃശ്യവൽക്കരിക്കാൻ കഴിയില്ല അതിനാൽ 2D യിലേക്ക് അതിനെ പരിമിതപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുവഴി എനിക്ക് അത് കാണാൻ കഴിയും അതിനാൽ ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇതാണ് എന്റെ D ഇത് എന്റെ രണ്ട് വേരിയബിൾ പ്രശ്നമാണ് അതിനാൽ എന്റെ കോൺട്രാസ്റ്റ് എന്നത് ലളിതമായി ആണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ൻറെ വ്യത്യസ്ത മൂല്യങ്ങൾക്കായി എനിക്ക് ഇത് പ്ലോട്ട് ചെയ്യാൻ കഴിയും എന്നതാണ് വിദ്യാർത്ഥി X ഒരു പരാബോളയുണ്ടോ അതോ അവിടെ നിരവധി പരാബോളകൾ ഉണ്ടോ അത് 2D യിൽ ഉള്ളതിനാൽ എനിക്ക് ഒരു രേഖ ഉണ്ടാകില്ല പക്ഷേ എനിക്ക് ഒരു ഉപരിതലമുണ്ടാകും അത് മാത്രമല്ല ഗ്രേഡിയന്റുകളുടെ ദിശയും കൃത്യമായി നോക്കാൻ എനിക്ക് കഴിയും ഗ്രേഡിയന്റ് ദിശ എന്നോട് എന്ത് പറയും വിദ്യാർത്ഥി പരമാവധി വ്യത്യാസം ഇത് എനിക്ക് വ്യക്തമായും പരമാവധി മാറ്റം നൽകും ഞാൻ അങ്ങനെ ചെയ്താൽ അത് നൽകുന്ന ഗ്രേഡിയന്റ് ഡിസെന്റ് അൽഗോരിതം ഏത് ദിശയിലേക്കാണ് തിരച്ചിൽ തുടരേണ്ടത് എന്ന് അത് എന്നോട് പറയും അതിനാൽ മുമ്പത്തെ പേജിൽ നിന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന രണ്ട് ലളിതമായ ഗ്രേഡിയന്റുകളുണ്ട് ഒന്ന് ഇതിൻറെ ഗ്രേഡിയന്റ് എടുക്കാം അതിൽ ഞാൻ ഒരു സ്ഥിരാംഗം ആയി അനുമാനിക്കുന്നു അതിനാൽ ഇത് ഒരു ലളിതമായ ഗ്രേഡിയന്റാണ് അതിനാൽ ഇതിനെയാണ് ഞാൻ രേഖീയ ഗ്രേഡിയന്റ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ധൈര്യമായി ഈ പദപ്രയോഗത്തിന്റെ ഗ്രേഡിയന്റ് എടുക്കാനും കഴിയും അതിനെ രേഖീയമല്ലാത്ത ഗ്രേഡിയന്റ് എന്ന് വിളിക്കും വ്യക്തമായും രേഖീയമല്ലാത്തത് കൃത്യമാണ് പക്ഷേ ഗണിതപരമായി ഇത് വളരെ മടുപ്പിക്കുന്നതാണ് അതിനാൽ അടുത്ത സംഖ്യാ പരീക്ഷണത്തിൽ ഞാൻ പഠിക്കാൻ പോകുന്നത് അതാണ് അതിനാൽ ഒരു സ്ഥിരാംഗമായി അനുമാനിക്കുന്നു എന്ന് ഞാൻ പറയുന്നു അതായത് എന്റെ ഗ്രേഡിയന്റ് ഞാൻ ൻറെ ഗ്രേഡിയന്റ് എടുക്കുന്നു അതായത് സ്ഥിരമാണ് അതിനാൽ ഞാൻ ഗ്രേഡിയന്റ് എടുക്കുമ്പോൾ ആശ്രിത പദങ്ങൾ ഇത് മാത്രമാണ് രേഖീയമല്ലാത്തത് എന്നാൽ ഇവിടെ എന്നത് ൻറെ ഒരു ഫംഗ്ഷൻ ആണ് വിദ്യാർത്ഥി ഞാൻ തുടരുകയാണെങ്കിൽ അതിനാൽ ഈ സിസ്റ്റം ഡിറ്റർമിനന്റ് 2 ന് ഏകതാനമായ പോലെയാണ് ചില മാധ്യമങ്ങളിലെ 2 ഏകതാനമായ വസ്തുക്കളും അവയുടെ പെർമിറ്റിവിറ്റി ഉം ഉം ആണ് വിദ്യാർത്ഥി ശരി ഈ ഒബ്ജക്റ്റ് മുഴുവനും പെർമിറ്റിവിറ്റി ആണെന്നാണ് ഞാൻ പറയുന്നത് അത് ഒരു പിക്സലിൽ മാത്രമല്ല മറിച്ച് ഈ നീല വസ്തു മുഴുവൻ ആണ് വിദ്യാർത്ഥിശരി ഈ സമ്പൂർണ്ണ ചതുരാകൃതിയിലുള്ള ഒബ്ജക്റ്റ് ആണ് അവയാണ് രണ്ട് വേരിയബിളുകൾ വിദ്യാർത്ഥി അതിനാൽ ബാക്കി അതിനാൽ കോൺട്രാസ്റ്റ് വെക്റ്റർ യഥാർത്ഥത്തിൽ ഈ പിക്സലുകളുടെ സംഖ്യയുടെ വലുപ്പം ആയിരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് വിദ്യാർത്ഥി അതുപോലെ ഇതെങ്ങനെ സമാനം ആകും അതിനാൽ യഥാർത്ഥത്തിൽ ഈ യാഥാർത്ഥ വളരെ നീളമുള്ള എന്നിങ്ങനെയുള്ള വെക്ടറായിരിക്കും ഈ കോൺട്രാസ്റ്റ് വെക്റ്റർ അങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നാൽ എങ്ങനെ ഇത് എളുപ്പമാക്കാമെന്ന് എനിക്കറിയുന്നതിനാൽ ഈ മുഴുവൻ വസ്തുവും ആണെന്നും ഈ മുഴുവൻ വസ്തുവും ആണെന്നുമുള്ള അധിക വിവരം ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു അതിനാൽ എന്നിവ 1 ഉം 0 ഉം കൊണ്ട് ഗുണിച്ചിരിക്കുന്ന ഒരു മാട്രിക്സിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇത് എഴുതാം ഇതിൻറെ വലുപ്പം ആണെങ്കിൽ പിന്നെ ഇത് വലുപ്പമാണെങ്കിൽ ശരിയായ സ്ഥലങ്ങളിൽ 1 ഉം 0 ഉം ഉള്ള ഒരു മാട്രിക്സ് ആയി എനിക്ക് ഇത് ലഭിക്കും അതിനാൽ എനിക്ക് ഇത് ലഭിക്കും അതിനാൽ ഞാൻ രണ്ട് വേരിയബിളുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു അതിനാൽ ഈ m മാട്രിക്സ് പിന്നീട് ഇവിടെ ഗുണിക്കും അതിനാൽ പ്രശ്നങ്ങൾ കൂടുതൽ ദൃശ്യവൽക്കരിക്കാൻ നമ്മൾ ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു അല്ലാത്തപക്ഷം നിങ്ങൾ കൈകൾ ഉയർത്തി n വേരിയബിളുകൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അത് ദൃശ്യവൽക്കരിക്കാൻ കഴിയില്ല മാത്രമല്ല നിങ്ങൾക്ക് അതിൻറെ അവബോധം ലഭിക്കുകയുമില്ല വിദ്യാർത്ഥി അപ്പോൾ അത് അത് മൂന്ന് വേരിയബിളുകൾ ആകും അല്ലേ മൂന്നാമത്തെ വേരിയബിൾ എന്താണ് വിദ്യാർത്ഥി മാധ്യമത്തിൻറെ പെർമിറ്റിവിറ്റി സമയം 0425 കാണുക ഓർക്കുക 0 വിദ്യാർത്ഥി ശരി ആയിരിക്കും അതിനാൽ എന്നത് എനിക്ക് നൽകിയ വാക്വം ആണെങ്കിൽ ഞാൻ അത് കണ്ടെത്താൻ ശ്രമിക്കില്ല വിദ്യാർത്ഥി അതെ അതിനാൽ നിങ്ങൾക്ക് ഇത് അതിന്റെ പൂർണ്ണമായ സാമാന്യതയിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇത് രക്തമാക്കി മാറ്റേണ്ടിവരും അതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടിവരും എന്നതാണ് ചോദ്യം അതിനാൽ നിങ്ങൾ അങ്ങനെയായിരിക്കും വളരെ സങ്കീർണ്ണമായ ഒരു പ്രശ്നം ഉണ്ടാക്കുക ഇവിടെ ചിന്തിക്കുന്നതിന് പ്രശ്നമില്ല അതിനാൽ നമ്മൾ ഇവിടെ ഒരു ലളിതമായ പ്രശ്നം പരിഹരിക്കുകയാണ് ഇവിടെ ഇവ രണ്ടും ഒഴികെ മറ്റെല്ലാം നമുക്കറിയാം ഇതു കണ്ടെത്താൻ തന്നെ ബുദ്ധിമുട്ടാണ് അതിനാൽ നമുക്ക് ഇതിനെ ദൃശ്യവൽക്കരിക്കാം അതുകൊണ്ടാണ് ഞാൻ രണ്ട് വേരിയബിളുകൾ മാത്രം പറയുന്നത് വിദ്യാർത്ഥി അപ്പോൾ സർ തുടക്കത്തിൽ നമുക്കറിയാൻ ആകുമോ എന്നിവയുടെ മൂല്യം നമുക്കറിയാം എന്ന് എന്നിവയുടെ മൂല്യം നമുക്കറിയില്ല വിദ്യാർത്ഥി നമുക്കറിയില്ല എന്നിവയുടെ മൂല്യം നമുക്കറിയില്ല അതിനാൽ ചിതറിക്കിടക്കുന്ന ഫീൽഡുകളുമായി s ഏറ്റവും മികച്ച കരാർ നൽകുന്ന എന്താണെന്ന് കണ്ടെത്താൻ ഞാൻ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കും അതാണ് പരീക്ഷണം അതിനാൽ ഒബ്ജക്റ്റുകളുടെ സ്ഥാനം അവ ഏകതാനമാണെന്നും മറ്റൊന്നില്ല എന്ന വസ്തുതയിലുമുള്ള നിരവധി മുൻകൂർ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു വിദ്യാർത്ഥി അപ്പോൾ നമ്മൾ എന്താണ് സ്ഥിരാങ്കം ആയി അനുമാനിക്കുന്നത് സ്ഥിരാങ്കമായി അനുമാനിക്കുക എന്നതിനർത്ഥം ഞാൻ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ നോക്കുകയും അതിന്റെ ഗ്രേഡിയന്റ് എടുക്കുകയും ചെയ്യുന്നു ഞാൻ സ്ഥിരാങ്കമായിരിക്കുമെന്നും ൻറെ ഫംഗ്ഷൻ അല്ല എന്നും അനുമാനിക്കുന്നു അതിനാൽ ഒരു രേഖീയ പ്രവർത്തനമാണ് അതിനാൽ ഗ്രേഡിയന്റ് എടുക്കുന്നത് വളരെ ലളിതമാണ് അതാണ് സ്ഥിരാങ്കമാണെന്ന് അനുമാനിക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥി പക്ഷേ U ഇവിടെ സ്ഥിരാങ്കം അല്ല അത് സ്ഥിരാങ്കമല്ല അതിനാൽ സ്ഥിരാങ്കമായി ഞാൻ കരുതുന്നു ആ ആവർത്തനത്തിൽ പുതിയ കണ്ടെത്തുക എന്നതാണ് ഞാൻ ചെയ്യുന്നത് അതിനാൽ ഞാൻ ൽ നിന്ന് കണ്ടെത്തുന്നു ശേഷം അത് സ്ഥിരാങ്കം ആയി അനുമാനിച്ച് അത് ഇവിടെ നൽകി ഗ്രേഡിയന്റ് കണ്ടെത്തുകയും ഇവിടെ പ്ലഗ് ഇൻ ചെയ്ത ന്റെ ഒരു പുതിയ മൂല്യം നൽകുന്ന അത് ഉപയോഗിച്ച് ഒരു പുതിയ കണ്ടെത്തി അത് തിരികെ അവിടെ സ്ഥിരാങ്കമായി നൽകി അതിനാൽ നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് ഒരു പാവം മനുഷ്യനെപ്പോലെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നാൽ ൻറെ ഒരു ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ എല്ലാം ഇവിടെ കൊടുക്കുക അതിനെയാണ് ഞാൻ രേഖീയമല്ലാത്ത സമീപനം എന്ന് വിളിക്കുന്നത് അതിനാൽ ഇവ രണ്ട് വ്യത്യസ്ത കേസുകളാണ് അല്ലേ അതിനാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാൽ നമ്മൾ പ്രശ്നം നന്നായി സജ്ജീകരിച്ചു ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അതിനാൽ ഈ എന്ന ഒബ്ജക്ടീവ് ഫംഗ്ഷന്റെ മൂല്യമാണ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നത് എന്റെ അക്ഷങ്ങൾ ഏതൊക്കെയാണ് അതിനാൽ നമുക്ക് ആദ്യം ഇടതുവശത്ത് നോക്കാം ഇത് കോൺട്രാസ്റ്റ് കുറഞ്ഞ പ്രശ്നമാണ് അതിനാൽ ആണ് അതിനാൽ കടും നീല നിറം ഏറ്റവും കുറഞ്ഞ മൂല്യത്തിനും മഞ്ഞ നിറം കോസ്റ്റ് ഫംഗ്ഷന്റെ ഉയർന്ന മൂല്യത്തിനോടും യോജിക്കുന്നു അതിനാൽ ഞാൻ കാണിക്കുന്നത് ഈ കോണ്ടൂർ പ്ലോട്ടുകൾ ആണ് അതിനാൽ ഇത് ഒരു കുന്നിന്റെ ഭൂപടം പോലെയാണ് അതിനാൽ മഞ്ഞ മൂല്യം കൊടുമുടിയാണ് നീല മൂല്യങ്ങളാണ് താഴ്വരകൾ ഈ ആരോകൾ നിങ്ങളെ കാണിക്കുന്നത് എന്താണ് ഈ അമ്പടയാളങ്ങൾ നെഗറ്റീവ് ഗ്രേഡിയന്റിന്റെ ദിശയാണ് കാണിക്കുന്നത് കാരണം എനിക്ക് എല്ലായ്പ്പോഴും നെഗറ്റീവ് ഗ്രേഡിയന്റിന്റെ ദിശയിലേക്ക് പോകണം അത് കുത്തനെയുള്ള ഇറക്കമാണ് അതെന്നെ മിനിമയിലേക്ക് കൊണ്ടുപോകൂ അതിനാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനാകും ബോൺ ഏകദേശത്തിനായുള്ള നമ്മൾ ഊഹിക്കുന്ന ഉത്ഭവത്തിൽ നിന്നാണ് ഞാൻ ആരംഭിക്കുന്നതെങ്കിൽ ഏകദേശം ശരിയായ ഉത്തരം പകുതി പകുതി എന്നു ലഭിക്കുന്നതാണ് ഞാൻ ഒന്ന് ഒന്ന് എന്നതിൽ നിന്നാണ് തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ശരിയായ താഴ്വരയിലേക്ക് പോകും പക്ഷേ എനിക്ക് ഇപ്പോഴും ശരിയായ ഉത്തരം ലഭിക്കുന്നുണ്ടോ ഉണ്ട് കാരണം ഇവിടെയുള്ള ഈ പ്രദേശത്ത് എല്ലാ ഗ്രേഡിയന്റുകളും എന്നെ ശരിയായ താഴ്വരയിലേക്ക് നയിക്കുന്നു അതിനാൽ എനിക്ക് ഇവിടെ ഒരു താഴ്വര ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങിയാലും എന്ത് സംഭവിക്കും ഈ അമ്പുകൾ എന്നെ ഇവിടേക്ക് തിരികെ കൊണ്ടുവരും അതിനാൽ ആ താഴ്വരയുടെ അയൽപക്കത്ത് എവിടെയും ഞാൻ ആരംഭിക്കുന്ന ഒരേയൊരു താഴ്വര മാത്രമേ ഉള്ളൂ അങ്ങനെ ശരിയായ ഉത്തരത്തിൽ ഞാൻ എത്തിച്ചേരുന്നു മറുവശത്ത് ഇല്ല ഞാൻ എന്റെ തിരയൽ ആരംഭിക്കുന്നത് നമുക്ക് പറയാം 66 എന്നിടത്തു നിന്നാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് കരുതുക ഗ്രേഡിയന്റുകൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അവർ എന്നെ ചില വിചിത്രമായ ദിശകളിലേക്ക് കൊണ്ടുപോകുന്നു തുടർന്ന് ഇവിടെ ഗ്രേഡിയന്റുകളുടെ വലുപ്പം വളരെ ചെറുതായിത്തീരുന്നു വെക്ടറിന്റെ നീളം ഗ്രേഡിയന്റിന്റെ വ്യാപ്തിയാണ് അതിനാൽ ഞാൻ ഇവിടെ എത്തുന്നു എന്താണ് സംഭവിക്കുന്നത് എനിക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയില്ല ഗ്രേഡിയന്റ് 0 ആണ് എന്നാൽ കോസ്റ്റ് ഫംഗ്ഷന്റെ മൂല്യം എന്താണ് അത് മിനിമം ആകുകയില്ല അല്ലേ അതിനാൽ നിങ്ങൾ എവിടെയാണ് ആരംഭിക്കുന്നത് എന്നത് പ്രധാനമാണ് കാരണം ഇപ്പോൾ ഇതൊരു രേഖീയമല്ലാത്ത ഒപ്റ്റിമൈസേഷൻ പ്രശ്നമാണ് എന്നാൽ 0 ന് അടുത്ത് എവിടെയെങ്കിലും ഞാൻ അത് കർശനമായി പാലിക്കാതെ ആരംഭിച്ചാൽ വളരെ വ്യക്തമാകുന്ന ശരിയായ ഉത്തരത്തിൽ ഞാൻ എത്തിച്ചേരുന്നു ഇനി നമുക്ക് മറ്റൊരു പ്രശ്നം എടുക്കാം അതിനാൽ ഇതിലേക്ക് വരുന്നതിനുമുമ്പ് നമുക്ക് ഇവിടെ സംഗ്രഹിക്കാം അതിനാൽ കുറഞ്ഞ കോൺട്രാസ്റ്റ് ഒബ്ജക്റ്റിന് നിങ്ങൾ എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നത് പ്രശ്നമല്ല എന്നിരുന്നാലും ശരിയായ ഉത്തരത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്നു കാരണം യഥാർത്ഥ മിനിമയും ആഗോള മിനിമയും ഉത്ഭവത്തോട് വളരെ അടുത്താണ് അതിനാൽ ഞാൻ ആരംഭിച്ചത് അല്ലെങ്കിൽ അതിന്റെ അയൽപക്കത്ത് നിന്നാണെങ്കിൽ ഞാൻ ശരിയായ ഉത്തരത്തിൽ എത്തിച്ചേരുന്നു വിദ്യാർത്ഥി നമ്മളിപ്പോൾ ആരംഭിക്കുന്നത് ഏകദേശം 0 8 എന്നിടത്ത് നിന്നാണെങ്കിൽ ഞാൻ എന്നിടത്ത് ആരംഭിച്ചെങ്കിൽ ഞാൻ തെറ്റായ ഉത്തരമാണ് ഉപയോഗിക്കുന്നത് അത് ശരിയാണ് നമ്മൾ ആരംഭിച്ച പോലുള്ള മറ്റ് പല പോയിന്റുകളും എടുത്താൽ ഞാൻ തെറ്റായ ഉത്തരത്തിൽ എത്തുന്നു അതിനാൽ ഇതിൽ എന്നെ തെറ്റായ ഉത്തരത്തിലേക്ക് കൊണ്ടുപോകുന്ന നിരവധി മേഖലകളുണ്ട് പക്ഷേ കണക്കുകൂട്ടൽ ബോൺ ഏകദേശ സിദ്ധാന്തത്തിൽ നിന്നാണ് ആരംഭിച്ചത് എന്നതിനാൽ അവ എല്ലായ്പ്പോഴും ആരംഭിച്ചത് എന്നതിൽ നിന്നായിരുന്നു അതിനാൽ അവർ എല്ലായ്പ്പോഴും ശരിയായ ഉത്തരത്തിൽ എത്തിച്ചേരുന്നു അതിനാൽ അവർക്ക് തൃപ്തികരമായ ഉത്തരം ലഭിച്ചു മറ്റൊരു സന്ദർഭത്തിൽ യഥാർത്ഥ കോശങ്ങൾക്ക് കോൺട്രാസ്റ്റിന്റെ വളരെ ചെറിയ മൂല്യങ്ങൾ ആവശ്യമില്ലെന്ന് നമുക്ക് അറിയാനാകും പക്ഷേ നിങ്ങൾ ഒരു ലളിതമായ 2 Dപ്രശ്നം ഉണ്ടാക്കിയതിനാൽ നിങ്ങൾക്ക് ഇത് പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ചില ഘട്ടങ്ങളിൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇതെന്ന് ഇത് പരാജയപ്പെടുന്നത് വരെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനിടയിൽ ധാരാളം കുന്നുകളും താഴ്വരകളും ഉള്ളതിനാൽ നിങ്ങൾക്ക് ശരിയായ ഉത്തരത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തതിനാലാണ് ഇത് പരാജയപ്പെടുന്നത് ശരിയായ ഉത്തരം ആണോ എന്ന് വലതുവശത്തുള്ള അടുത്ത പ്രശ്നത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിനാൽ ശരിയായ ഉത്തരം ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് എന്നതിൽ നിന്നാണ് നിങ്ങൾ ആരംഭിച്ചതെങ്കിൽ എന്ത് സംഭവിക്കും വിദ്യാർത്ഥി ദുരന്തം ദുരന്തം അല്ലേ ഞാൻ താഴേക്ക് പോകുന്നു എനിക്ക് നെഗറ്റീവ് മൂല്യങ്ങൾ ലഭിക്കും അതിനാൽ നമുക്ക് പ്രതീക്ഷിക്കാനാകില്ല യഥാർത്ഥത്തിൽ എവിടെ നിന്ന് ആരംഭിക്കണമെന്ന് എനിക്കറിയില്ല എനിക്ക് എന്തെങ്കിലും ക്രമരഹിതമായ പോയിന്റിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വീണ്ടും ആരംഭിച്ചാൽ ഞാൻ താഴേക്ക് പോകുന്നു ഞാൻ ഇവിടെ നിന്ന് ആരംഭിച്ചാൽ ഇവിടെ നിന്ന് പറയാം ഞാൻ ഇവിടെ എത്തുന്നു ഗ്രേഡിയന്റുകൾ 0 ആയിരിക്കും അല്ലേ അതിനാൽ ഈ രൂപരേഖ നിർമ്മിക്കുന്നത് വളരെയധികം കണക്കുകൂട്ടലുകൾ ഉള്ള പ്രയാസമേറിയ ഒരു ജോലി ആണ് എന്റെ അറിവിനെ സഹായിക്കാനാണ് ഞാൻ ഈ രൂപരേഖ തയ്യാറാക്കുന്നത് വിദ്യാർത്ഥി ഇത് ഇത് ൻറെ മൂല്യങ്ങളുടെ 2 D പ്ലോട്ടിൻറെ ഒരു രൂപരേഖയാണ് വിദ്യാർത്ഥി ആ x 1 x 2 ആയി സംബന്ധിച്ചതാണോ ശരിയായ എവിടെയാണ് അതിനോട് പൊരുത്തപ്പെടുന്ന ഇപ്പോൾ വ്യത്യസ്തമായ ഉം ഉം മൂല്യങ്ങളുള്ള കോസ്റ്റ് ഫംഗ്ഷന്റെ മൂല്യം എങ്ങനെയിരിക്കും അതിനാൽ യഥാർത്ഥത്തിൽ എനിക്കൊരിക്കലും ഇതിലേക്ക് എത്തേണ്ട കാര്യമില്ല കാരണം ആദ്യം ഇത് ഒരു 10000 വേരിയബിൾ പ്രശ്നമായിരിക്കും അതിനാൽ 10000 അളവുകൾ ഞാൻ എങ്ങനെ ദൃശ്യവൽക്കരിക്കും വിദ്യാർത്ഥി സമയം 1126 കാണുക അതെ ഇത് അതിനുള്ളതാണ് ഇതിന് വേണ്ടി മാത്രം വിദ്യാർത്ഥി ഈ അവസരത്തിൽ വേറെ എന്തെങ്കിലും ആണെന്ന് കരുതുക സമയം 1131 കാണുക അതെ ഈ കേസിനായി ഞാൻ ചെയ്യേണ്ടത് പകുതിയിൽ നിന്ന് ഉണ്ടാക്കുക മാത്രമാണ് ഞാൻ അത് ആക്കി ഇപ്പോൾ ഞാൻ വലിയ കുഴപ്പത്തിലാണ് എവിടെ പോകണമെന്ന് അറിയാൻ എനിക്ക് നല്ല മാർഗമില്ല അതിനാൽ അതാണ് ഇവിടെയുള്ള ഒരു വലിയ പ്രശ്നം ഈ ഡൊമെയ്ൻ ഏകദേശം ഇവിടെനിന്ന് ആരംഭിച്ചെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ ഈ പ്രശ്നത്തിൽ വന്നെത്തുകയുള്ളൂ അതിനാലാണ് എനിക്ക് ചില മുൻകൂർ വിവരങ്ങൾ ആവശ്യമായിട്ടുള്ളത് വിദ്യാർത്ഥി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതിൽ തികച്ചും നല്ല സിദ്ധാന്തം അതിനാൽ മെഷീൻ ലേണിംഗിന്റെയും ഡീപ് ലേണിംഗിന്റെയും എല്ലാ ആഴത്തിലുള്ള പഠനവും നിങ്ങൾക്കറിയാം അതെല്ലാം ഇതിൽ പ്രയോഗിച്ച് ശരിയായ താഴ്വര എവിടെയായിരിക്കുമെന്ന് മനസിലാക്കാൻ കുറെയധികം വിവരങ്ങളിൽ നിന്ന് ശ്രമിക്കാം അതുകൊണ്ടാണ് ഇത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഗവേഷണ പ്രശ്നം ആയത് യഥാർത്ഥ കോശങ്ങൾക്കും യഥാർത്ഥ കുഴി ബോംബുകൾക്കും ഉയർന്ന കോൺട്രാസ്റ്റ് ആയിരിക്കും അതിനാൽ നിങ്ങൾ ഈ പ്രശ്നവുമായി നേരിടേണ്ടതുണ്ട് ഇവിടെ ഒരാൾ നിർദ്ദേശിച്ചതുപോലെ ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നു അതിനാൽ ഇതായിരുന്നു ഇതൊരു വെല്ലുവിളി നിറഞ്ഞ പ്രശ്നമായിരുന്നു ഇപ്പോൾ ഈ കോൺട്രാസ്റ്റ് ആണെന്ന് നിർവചിക്കപ്പെട്ടു ഇപ്പോൾ അത് ഒരു ലളിതമായ നിർവചനമാണ് കോൺട്രാസ്റ്റിന്റെ യഥാർത്ഥ നിർവചനം യഥാർത്ഥത്തിൽ ഇതുപോലെയാണ് എന്നാൽ ഒരു പശ്ചാത്തല മാധ്യമത്തിന്റെ പെർമിറ്റിവിറ്റിയാണ് അതിനാൽ ഒരു പശ്ചാത്തല മാധ്യമം വാക്വം ആയിരുന്നു അത് ആയിരുന്നു എന്നാൽ യഥാർത്ഥ പെർമിറ്റിവിറ്റി ഏകദേശം ഈ ഉയർന്ന ശ്രേണിയിലായിരിക്കുമെന്ന് എനിക്കറിയാമെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് പൊരുത്തപ്പെടുന്ന ദ്രാവകം അല്ലെങ്കിൽ പൊരുത്തപ്പെടുന്ന വസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് മാധ്യമം നിറയ്ക്കാം അവയുടെ എനിക്ക് ഉദാഹരണമായി 5 പോലെയുള്ള ഒന്ന് നമുക്ക് എടുക്കാം അപ്പോൾ കോൺട്രാസ്റ്റ് എന്തായിത്തീരും അതിനാൽ ന് കോൺട്രാസ്റ്റ് ആയിരിക്കും ന് അല്ലേ അതിനാൽ ഇവയെല്ലാം ചെറിയ സംഖ്യകളാണ് മൈനസ് ആയിരിക്കും അതിനാൽ എന്റെ പ്രശ്നം കുറഞ്ഞു ഞാൻ എൻറെ പ്രശ്നത്തെ ഈ രീതിയിൽ ചെയ്തു ഞാൻ പെർമിറ്റിവിറ്റി കുറച്ചുകൂടി ചെറുതാക്കി പക്ഷേ കുറേ അധികം തവണ ഇത് സാധ്യമല്ല കാരണം പെർമിറ്റിവിറ്റി 4 അല്ലെങ്കിൽ 5 ഉള്ള ഒരു ദ്രാവകം ഉണ്ടാക്കുന്നത് എനിക്ക് സാധ്യമല്ല കൂടാതെ കുഴിബോംബ് കണ്ടെത്തൽ പ്രശ്നത്തിൽ അത് മറക്കുക സത്യത്തിൽ അങ്ങനെയല്ല അതിനാൽ നമ്മൾ n ന് തുല്യമായ m എന്നതിൽ നിന്ന് ആരംഭിച്ച് അത് ഉപയോഗിക്കുന്നത് എന്താണ് എന്നതാണ് ചോദ്യം അതിനാൽ ശരിയായ ക്വാഡ്രന്റിലേക്ക് പ്രവേശിക്കാൻ ഇത് നിങ്ങളെ സഹായിച്ചേക്കാം പക്ഷേ പ്രശ്നം ഞാൻ n ന് തുല്യമായ m ൽ ആരംഭിക്കുമ്പോൾ എനിക്ക് ഒരു m ഡൈമൻഷണൽ സ്പെയ്സ് ഉണ്ട് എനിക്ക് അവിടെ ചില പരിഹാരങ്ങൾ ലഭിച്ചു ഇപ്പോൾ ഉയർന്ന റെസല്യൂഷൻ ലഭിക്കുന്നതിനായി പോകണമെങ്കിൽ 100 m പോകണം എന്ന് കരുതുക ഇപ്പോൾ എനിക്ക് 100 m ഡൈമൻഷണൽ സ്പേസ് ഉണ്ട് ആ m ഡൈമൻഷണൽ സ്പേസും ഈ 100 മീറ്റർ ഡൈമൻഷണൽ സ്പേസും എങ്ങനെ ബന്ധപ്പെടുത്തും വിദ്യാർത്ഥി നിങ്ങളുടെ കയ്യിൽ ഉള്ള മൂല്യങ്ങളുമായി താരതമ്യം ചെയ്യുക അതെ എനിക്ക് ഈ വസ്തുവിന് കുറച്ച് മൂല്യമുണ്ട് വിദ്യാർത്ഥി ഇല്ല അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതിനാൽ ചില അർത്ഥത്തിൽ ഞാൻ ആ പരിഹാരം ഡൌൺ സാമ്പിൾ ചെയ്യണം അതായത് ഞാൻ പറയാം ഇവിടെ എനിക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് എനിക്ക് ഇത് വീണ്ടെടുക്കണമെന്നാണ് വിദ്യാർത്ഥി കൂടുതൽ റെസല്യൂഷനിൽ ഉയർന്ന റെസല്യൂഷൻ റെസല്യൂഷൻ ഇപ്പോൾ ഞാൻ എന്തുചെയ്യണം എനിക്ക് രണ്ട് റെസല്യൂഷൻ ഉത്തരം ലഭിച്ചു ഇപ്പോൾ ഉയർന്ന റെസല്യൂഷനുള്ള പ്രാരംഭ ഊഹമായി ഇവ രണ്ടും മാപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ആണ് അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് വിദ്യാർത്ഥി അതിനുത്തരം നൽകാൻ ഇതിലേക്ക് ഞാനെങ്ങനെ മാപ്പ് ചെയ്യാം വിദ്യാർത്ഥി ഇവിടെയുള്ള ഒരു ഗ്രിഡിൽ നിന്ന് അവിടെയുള്ള ഒരു ഗ്രിഡിലേക്ക് അതെ ഇവിടെ ഒരു ഗ്രിഡിൽ നിന്ന് ഒരു ഗ്രിഡിലേക്ക് അത് ചെയ്യാൻ കഴിയും പക്ഷേ അത് വീണ്ടും ഒരു വീണ്ടെടുക്കൽ മത്സരത്തിൽ അത് ചെയ്യാൻ കഴിയും അത് ചെയ്തു അത് ചിലപ്പോൾ ശരിയായ താഴ്വരയിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ സഹായിക്കുന്നു പക്ഷേ ഈ താഴ്വരകൾ മൃദുലം ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഈ താഴ്വരയിൽ തുടങ്ങി ഞാൻ ശരിയായ ഉത്തരത്തിൽ എത്തിച്ചേരുന്നു എന്നാൽ ഞാൻ തുടങ്ങിയാൽ ഇവിടെ തുടങ്ങുന്നതിനുപകരം നമുക്ക് പറയാം ഞാൻ ഇവിടെ നിന്ന് ആരംഭിച്ചു തുടർന്ന് ഞാൻ എന്റെ യാത്ര ഇങ്ങോട്ട് മാറ്റുന്നു അതിനാൽ ഇത് പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യാം വിദ്യാർത്ഥി പക്ഷേ ഇത് ഒരു നല്ല ഏകദേശം ഊഹം ആയിരിക്കാം ഇത് ഒരു നല്ല ഏകദേശമാണ് വാസ്തവത്തിൽ ഇത് സാധാരണയായി ശരിയാണ്